കോഴ്സ് ഡാറ്റാ സയൻസ് എഞ്ചിനീയർമാരുടെ ആർ മൊഡ്യൂളിലെ പ്രഭാഷണം 5 ലേക്ക് സ്വാഗതം മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ ഡാറ്റ ഫ്രെയിമുകൾ എങ്ങനെ സൃഷ്ടിക്കാം ഡാറ്റ ഫ്രെയിമുകളുടെ വരികളും നിരകളും എങ്ങനെ ആക്സസ് ചെയ്യാം നിലവിലുള്ള ഡാറ്റ ഫ്രെയിമിലേക്ക് വരികളും നിരകളും എങ്ങനെ ചേർക്കാം എന്നിവ ഞങ്ങൾ കണ്ടു ഡാറ്റ ഫ്രെയിമുകളുടെ റീകാസ്റ്റിംഗ് ജോയിൻ ചെയ്യൽ തുടങ്ങിയ ഡാറ്റ ഫ്രെയിമുകളിലെ കൂടുതൽ സങ്കീർണ്ണമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇവിടെ നോക്കും ഈ പ്രഭാഷണത്തിൽ നമ്മൾ ആദ്യം നിർവചിക്കാൻ പോകുന്നത് ഒരു ഡാറ്റ ഫ്രെയിമിന്റെ റീകാസ്റ്റിംഗ് എന്താണ് അർത്ഥമാക്കുന്നത് എന്തുകൊണ്ടാണ് ഒരാൾ ഡാറ്റ ഫ്രെയിമുകൾ റീകാസ്റ്റ് ചെയ്യേണ്ടത് മെൽറ്റ് ആൻഡ് കാസ്റ്റ് കമാൻഡ് ഉപയോഗിച്ച് 2 ഘട്ടങ്ങളിലായി റീകാസ്റ്റിംഗ് എങ്ങനെ ചെയ്യാം റീകാസ്റ്റ് കമാൻഡ് ഉപയോഗിച്ച് ഒറ്റ ഘട്ടത്തിൽ എങ്ങനെ റീകാസ്റ്റിംഗ് ചെയ്യാം ലെഫ്റ്റ് ജോയിൻ റൈറ്റ് ജോയിൻ ഉപയോഗിച്ച് 2 ഡാറ്റ ഫ്രെയിമുകൾ എങ്ങനെ ജോയിൻ ചെയ്യാം r ലെ ഡി പ്ലെയർ പാക്കേജിന്റെ ആന്തരിക ജോയിൻ ഫംഗ്ഷനുകളും ഡാറ്റ ഫ്രെയിമുകൾ റീകാസ്റ്റ് ചെയ്യുന്നത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം വേരിയബിളുകളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയായി അഭ്യർത്ഥിക്കുക എന്തുകൊണ്ടാണ് ഡാറ്റ ഫ്രെയിമുകൾ റീകാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വ്യത്യസ്ത വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ഡാറ്റയെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ചകൾ കൊണ്ടുവരാൻ കഴിയുന്ന ഡാറ്റ പുനർരൂപകൽപ്പന ചെയ്യാൻ റീകാസ്റ്റിംഗ് സഹായിക്കുന്നു എന്നതാണ് ഉത്തരം കഴിഞ്ഞ പ്രഭാഷണത്തിൽ സൃഷ്ടിച്ച ഒരു ഡാറ്റ ഫ്രെയിം എടുക്കാം കോളം നാമം മാസം രക്തത്തിലെ പഞ്ചസാര രക്തസമ്മർദ്ദം എന്നിവയുള്ള ഡാറ്റ ഫ്രെയിമിന്റെ പേര് pd അതിനാൽ ഇപ്പോൾ ഈ ഡാറ്റ ഫ്രെയിമിനെ ചുവടെ കാണിച്ചിരിക്കുന്ന മറ്റൊരു രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവിടെ നിങ്ങൾക്ക് പ്രാധാന്യമുള്ള വേരിയബിളുകളായി നിങ്ങൾക്ക് രക്തത്തിലെ പഞ്ചസാരയും രക്തസമ്മർദ്ദവും ഉണ്ട് ഇതിൽ റീകാസ്റ്റിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഓപ്പറേഷൻ ഉൾപ്പെടുന്നു ഈ റീകാസ്റ്റിംഗ് ഒരു ഉപയോഗിച്ച് പ്രകടമാക്കുന്നു ഉദാഹരണം ഇവിടെ അതിനാൽ റീകാസ്റ്റിംഗ് ചെയ്യുന്നതിന് നമുക്ക് ഒരു ഡാറ്റ ഫ്രെയിം ഉണ്ടായിരിക്കണം അത് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് ഈ ഡാറ്റ ഫ്രെയിം സൃഷ്ടിക്കുന്നതിന് സ്ക്രീനിൽ ദൃശ്യമാകുന്ന കോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾ ഈ കോഡ് ഉപയോഗിച്ച് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡാറ്റ ഫ്രെയിം നിങ്ങൾ കാണും ഞങ്ങൾക്ക് ഇപ്പോൾ ഡാറ്റ ഫ്രെയിം ഉള്ളതിനാൽ നിലവിലുള്ള ഡാറ്റ ഫ്രെയിം നമുക്ക് ആവശ്യമുള്ള ഫോമിലേക്ക് എങ്ങനെ റീകാസ്റ്റ് ചെയ്യാമെന്ന് കാണാൻ കഴിയും ഇത് തെളിയിക്കാൻ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഡാറ്റ ഫ്രെയിം മറ്റൊരു രൂപത്തിലേക്ക് എങ്ങനെ റീകാസ്റ്റ് ചെയ്യാം 2 ഘട്ടങ്ങൾ ഉപയോഗിച്ച് ആദ്യം ഒന്ന് ഉരുകുകയും രണ്ടാമത്തേത് കാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു റീകാസ്റ്റ് ചെയ്യാൻ മെൽറ്റ് ആൻഡ് കാസ്റ്റ് കമാൻഡ് ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ പക്കലുള്ള ഡാറ്റയാണിത് നിങ്ങളുടെ ഡാറ്റ ഫ്രെയിമിന്റെ ഐഡന്റിഫയർ വേരിയബിളുകളും മെഷർമെന്റ് വേരിയബിളുകളും എന്ന് വിളിക്കപ്പെടുന്ന ഡാറ്റ ഫ്രെയിം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ തിരിച്ചറിയൽ വേരിയബിളുകൾ ഇൻഡെൻറിഫൈ ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ ഡിസ്ക്രീറ്റ് ടൈപ്പ് വേരിയബിളുകളിൽ ഭൂരിഭാഗവും ഐഡന്റിഫയർ വേരിയബിളുകൾ ആകാം സംഖ്യാ വേരിയബിളുകൾ അളക്കുക മെഷർമെന്റ് വേരിയബിളുകൾ ആകാം കൂടാതെ മെഷർമെന്റ് വേരിയബിളുകൾക്ക് ചില നിയമങ്ങളുണ്ട് കാറ്റഗറിക്കൽ ഡേറ്റ് വേരിയബിളുകൾ മെഷർമെന്റ് വേരിയബിളുകൾ ആവരുത് അതിനാൽ പ്രധാന ആശയം ഡാറ്റ ഫ്രെയിമിൽ നിന്നാണ് ഐഡന്റിഫയർ വേരിയബിളുകൾ എന്ന് വിളിക്കപ്പെടുന്നവ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ടോ അളക്കൽ വേരിയബിളുകൾ എന്ന് എന്താണ് വിളിക്കുന്നത് ഈ ഐഡന്റിഫയർ വേരിയബിളുകളും മെഷർമെന്റ് വേരിയബിളുകളും നിങ്ങൾ തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്ന മെൽറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് ഈ മെൽറ്റ് കമാൻഡ് റീഷെപ്2ലൈബ്രറിയിൽ ലഭ്യമാണ് ചില പ്രവർത്തനങ്ങൾ നടത്താൻ ഇതാദ്യമായാണ് ഞങ്ങൾ മറ്റൊരു ലൈബ്രറി ലോഡ് ചെയ്യുന്നത് പ്രീ കോഴ്സ് മെറ്റീരിയലിൽ പാക്കേജുകൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു കൂടാതെ ഇതിനകം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പാക്കേജുകൾ ലോഡ് ചെയ്യാൻ ഈ ലൈബ്രറി കമാൻഡ് നിങ്ങളെ സഹായിക്കുന്നു ഇതാണ് മെൽറ്റ് കമന്റിന്റെ വാക്യഘടന മെൽറ്റ് കമാൻഡിനായി നിങ്ങൾ ഡാറ്റ ഫ്രെയിം ആദ്യ ആർഗ്യുമെന്റായി നൽകണം കൂടാതെ നിങ്ങളുടെ ഡാറ്റ ഫ്രെയിമിലെ ഐഡന്റിഫയർ വേരിയബിളുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് കൂടാതെ നിങ്ങളുടെ ഡാറ്റ ഫ്രെയിമിലെ മെഷർമെന്റ് വേരിയബിളുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് ഇവയാണ് ഡിഫോൾട്ട് വേരിയബിൾ മെൽറ്റ് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന മൂല്യ ആർഗ്യുമെന്റുകളും ഈ മെൽറ്റിംഗ് ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് ഈ കോഡ് ഉപയോഗിക്കാം നിങ്ങൾ ആദ്യം ഈ ലൈബ്രറി റീഷെയ്പ്പ് 2 ലോഡ് ചെയ്യണം അതിൽ ഈ ഫംഗ്ഷനുകൾ മെൽറ്റ് ആൻഡ് കാസ്റ്റ് ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ കണ്ട വാക്യഘടന മെൽറ്റ് നിങ്ങൾ ഉരുകാൻ ആഗ്രഹിക്കുന്ന ഡാറ്റ ഫ്രെയിം പാസ്സാക്കേണ്ടതുണ്ട് കൂടാതെ നിങ്ങൾ വ്യക്തമാക്കുകയും വേണം ഡാറ്റ ഫ്രെയിമിലെ നിങ്ങളുടെ പാസ്സിലെ ഐഡന്റിഫയർ വേരിയബിളുകൾ ഏതൊക്കെയാണ് നിങ്ങൾ കടന്നുപോകുന്ന മെഷർമെന്റ് വേരിയബിളുകൾ ഏതൊക്കെയാണ് നിങ്ങൾ ഈ പ്രാരംഭ ഡാറ്റ ഫ്രെയിം ചെയ്തുകഴിഞ്ഞാൽ അത് ചെയ്തത് ഇതാണ് ഈ പേരും മാസവും അല്ലെങ്കിൽ ഐഡി വേരിയബിളുകളായി നൽകിയിരിക്കുന്നതിനാൽ അത് ഉള്ളതുപോലെ തന്നെ കൂടാതെ മെഷർമെന്റ് വേരിയബിളുകൾ BS BP എന്നിവ ഇപ്പോൾ നെയിം വേരിയബിൾ പ്രകാരം ഒരു കോളത്തിന് കീഴിൽ ആരംഭിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാം അവയുടെ മൂല്യങ്ങൾ മറ്റൊരു കോളത്തിൽ സംഭരിച്ചിരിക്കുന്നു അതിന് മൂല്യം എന്ന് പേരിട്ടിരിക്കുന്നു അതിനാൽ മെൽറ്റ് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് ഈ ഐഡി വേരിയബിളുകൾ എടുത്ത് അവയെ അസിസ്റ്റ് ആയി നിലനിർത്തും തുടർന്ന് മെഷർ വേരിയബിളുകളെ വേരിയബിൾ നൽകുന്ന ഒരൊറ്റ കോളമാക്കി മാറ്റുകയും ആ വേരിയബിളുകളുടെ മൂല്യങ്ങൾ മറ്റൊരു കോളത്തിൽ നെയിം വാല്യൂ പ്രകാരം സംഭരിക്കുകയും ചെയ്യും അതാണ് ഈ വാക്യഘടനയിൽ ഡോട്ട് നെയിം വേരിയബിൾ എന്നും വാല്യൂ ഡോട്ട് നെയിം എന്നത് മൂല്യം എന്നും പറയുമ്പോൾ അതിനാൽ ഈ മെഷർമെന്റ് വേരിയബിളുകൾ വഹിക്കുന്ന നിരകൾക്ക് വേരിയബിൾ എന്നും മെഷർമെന്റ് വേരിയബിളിന്റെ മൂല്യങ്ങൾ മുഴുവനായും മൂല്യം എന്നും നാമകരണം ചെയ്യുന്നു അതിനാൽ ഇത് ഡാറ്റ ഫ്രെയിമിന്റെ ആദ്യ ഘട്ട ഐഡന്റിഫയർ വേരിയബിളുകളും മെഷർമെന്റ് വേരിയബിളുകളും ആണ് കൂടാതെ ഈ ഘടനയിലേക്ക് ലഭിക്കുന്നതിന് ഡാറ്റ ഫ്രെയിം ഉരുക്കാൻ മെൽറ്റ് കമാൻഡ് ഉപയോഗിക്കുന്നു അടുത്ത ഘട്ടം കാസ്റ്റാണ് ഞങ്ങൾ ഇവിടെ ഡാറ്റ ഫ്രെയിം ഉപയോഗിക്കുന്നതിനാൽ ഞങ്ങൾ ഫംഗ്ഷൻ d കാസ്റ്റ് ഉപയോഗിക്കുന്നു ഈ d cast ഫംഗ്ഷൻ റീഷെയ്പ്പ് 2 ലൈബ്രറിയിലും ലഭ്യമാണ് d cast ന്റെ വാക്യഘടന ഇപ്രകാരമാണ് d cast കമാൻഡ് ഡാറ്റ ഫ്രെയിമിൽ എടുക്കുന്നു നിങ്ങൾക്ക് കാസ്റ്റ് ചെയ്യേണ്ടത് ഏതാണ് ഈ കേസിന് അത് എന്താണെന്ന് വിശദീകരിക്കുന്ന ഫോർമുല എന്താണ് ഒപ്പം മൂല്യം ഡോട്ട് var അതിനാൽ നിങ്ങൾ കാസ്റ്റുചെയ്യുമ്പോൾ മൂല്യങ്ങൾ എടുക്കേണ്ട നിരകൾ വ്യക്തമാക്കേണ്ടതുണ്ട് ഞങ്ങളുടെ കേസ് ഉദാഹരണം നോക്കാം നിങ്ങൾ ഇതിനകം ഉരുക്കിയ ഒരു ഡാറ്റ ഫ്രെയിം Df ഇവിടെയുണ്ട് ഇപ്പോൾ d cast കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾ മറ്റൊരു ഡാറ്റ ഫ്രെയിം Df2 സൃഷ്ടിക്കുന്നു ഇതാണ് നിങ്ങൾ കൈമാറുന്ന ഡാറ്റ ഫ്രെയിം അത് Df ആണ് ഇതാണ് ഫോർമുല അതു എന്തു പറയുന്നു ഈ വേരിയബിളും മന്തും സ്ഥിരമായി ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബ്ലഡ് ഷുഗറും ബ്ലഡ് പ്രഷറും നിങ്ങളുടെ പ്രാധാന്യമുള്ള വേരിയബിളുകളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു തുടർന്ന് നിങ്ങൾ നെയിം വേരിയബിളിനെ 2 കോളങ്ങളായി പരിവർത്തനം ചെയ്യണം എണ്ണം അനുസരിച്ച് ഒരു നിരയുടെ എണ്ണം എത്രയാണ് പേരിലുള്ള വിഭാഗങ്ങൾ അതാണ് ഈ ഫോർമുല വിശദീകരിക്കുന്നത് കോളം വേരിയബിളും മാസവും അതേപടി നിലനിൽക്കുകയും പേരിലെ വിഭാഗങ്ങൾ പുതിയ വേരിയബിളായി മാറുകയും ചെയ്യുന്നു ഈ ഉദാഹരണത്തിൽ നമുക്ക് 2 വിഭാഗങ്ങളുണ്ട് അവ സാം സെന്തിൽ എന്നിവയും അവ പുതിയ കോളങ്ങളായി മാറുന്നു അവ പുതിയ വേരിയബിളുകളാണ് ആ വേരിയബിളുകളുടെ മൂല്യങ്ങൾ കോളം മൂല്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കണം അതാണ് ഈ മൂല്യ ഡോട്ട് വേരിയബിൾ നിർദ്ദേശിക്കുന്നത് ഈ പ്രവർത്തനം പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡാറ്റ ഫ്രെയിം പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ ഫോർമാറ്റിൽ ഡാറ്റ ഫ്രെയിം ലഭിക്കുന്നത് ഇങ്ങനെയാണ് അതിനാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ ഉരുകിയ ഡാറ്റ ഫ്രെയിം ഉണ്ട് നിങ്ങൾ dcast ഫംഗ്ഷൻ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ ഡാറ്റ ഫ്രെയിമിൽ കടന്നുപോകുകയും വേരിയബിളും മാസവും ആണെന്ന് നിങ്ങൾ പറയുന്നു അത് സ്ഥിരമായി ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഫോർമുലയുടെ ഇടതുവശത്താണ് ഫോർമുലയുടെ വലതുവശത്ത് നിങ്ങൾക്ക് പേരുണ്ട് അതിനാൽ ഈ നെയിം കോളത്തിൽ നമുക്ക് സാം സെന്തിൽ എന്നീ 2 വിഭാഗങ്ങളുണ്ട് അവ 2 പുതിയ കോളങ്ങളായി സൃഷ്ടിക്കപ്പെടും ആ കോളങ്ങളുടെ മൂല്യങ്ങൾ ഉരുകിയ ഡാറ്റ ഫ്രെയിമിന്റെ മൂല്യ കോളത്തിൽ നിന്ന് എടുക്കണം അങ്ങനെയാണ് കാസ്റ്റ് കമാൻഡ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഒരൊറ്റ ഘട്ടത്തിൽ ഈ റീകാസ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിനാൽ റീകാസ്റ്റിംഗ് ഒരൊറ്റ ഘട്ടത്തിൽ പ്രകടനം നടത്താൻ കഴിയും റീകാസ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇതിനുള്ള വാക്യഘടന ഇപ്രകാരമാണ് നിങ്ങൾ ഡാറ്റയും ഫോർമുലയും നൽകേണ്ടതുണ്ടെന്നും ഐഡി വേരിയബിളുകളും അളക്കൽ വേരിയബിളുകളും ഞങ്ങൾ നൽകണമെന്നും വീണ്ടും കണക്കാക്കുക അതിനാൽ നിങ്ങൾക്ക് ഈ ഇൻപുട്ട് ആർഗ്യുമെന്റുകൾ കാണാൻ കഴിയുമെങ്കിൽ ഈ കമാൻഡിൽ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഉരുകുകയും കാസ്റ്റുചെയ്യുകയും ചെയ്യുന്ന ഇൻപുട്ട് ആർഗ്യുമെന്റുകൾ എടുക്കുന്നു അതിനാൽ റീകാസ്റ്റ് കമാൻഡ് ഡാറ്റാ ഫ്രെയിം എടുക്കുന്നു ഇത് ഫോർമുലയും എടുക്കുന്നു ഇതാണ് കമാൻഡിന്റെ കാസ്റ്റ് വിഭാഗത്തെ സൂചിപ്പിക്കുന്ന പാരാമീറ്റർ ഇതാണ് പാരാമീറ്റർ അത് കമാൻഡിന്റെ ഉരുകിയ വിഭാഗത്തെ സൂചിപ്പിക്കുന്നു ഉരുകലിൽ ഞങ്ങൾ കണ്ടത് ഐഡി വേരിയബിളുകളും അളക്കൽ വേരിയബിളുകളും എന്താണെന്ന് ഞങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ ഐഡി വേരിയബിളുകൾ മാത്രം വ്യക്തമാക്കുമ്പോൾ ബാക്കി വേരിയബിളുകൾ സ്ഥിരസ്ഥിതിയായി അളക്കൽ വേരിയബിളുകളായി എടുക്കുന്നു അതിനാൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ അളക്കൽ വേരിയബിളുകൾ വ്യക്തമാക്കാത്തത് വാക്യഘടനയിൽ നിന്ന് നമുക്ക് കാണാനാകുന്നതുപോലെ നിങ്ങൾക്ക് അളക്കൽ വേരിയബിളുകളും വ്യക്തമാക്കാനും കഴിയും ഇപ്പോൾ നിങ്ങൾ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് ഉരുകുകയും അത് കാസ്റ്റുചെയ്യുകയും ചെയ്യും കൂടാതെ ചുവടെയുള്ള ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഇത് കാസ്റ്റഡ് ഡാറ്റ ഫ്രെയിം പ്രിന്റുചെയ്യും അടുത്തതായി റീകാസ്റ്റ് കമാൻഡ് ഉപയോഗിച്ച് ഉരുകുകയും കാസ്റ്റ് പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടത്തുകയും ചെയ്യാമെന്ന് നമുക്ക് കാണാൻ കഴിയും അടുത്തതായി മ്യൂട്ടേറ്റ് കമാൻഡ് ഉപയോഗിച്ച് ഇതിനകം നിലവിലുള്ള വേരിയബിളിന്റെ പ്രവർത്തനമായ ഒരു പുതിയ വേരിയബിൾ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് ഞങ്ങൾ കാണുന്നു ചില സമയങ്ങളിൽ വിവർത്തനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഫംഗ്ഷൻ വേരിയബിൾ ആണ് അത് നിലവിലുള്ള വേരിയബിളുകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നു ഈ സാഹചര്യത്തിൽ ബിപി മൂല്യത്തിന്റെ ലോഗരിതം ഡാറ്റയെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച നൽകുന്ന ഒന്നാണെന്ന് നമുക്ക് അനുമാനിക്കാം നിലവിലുള്ള രക്തസമ്മർദ്ദ മൂല്യത്തിൽ നിന്നുള്ള രക്തസമ്മർദ്ദത്തിന്റെ ലോഗരിതം മൂല്യം വഹിക്കുന്ന ഒരു പുതിയ വേരിയബിൾ നിങ്ങൾ എങ്ങനെ സൃഷ്ടിക്കും ചോദ്യം ഇപ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നത് നിങ്ങൾ ലൈബ്രറി dplyr ലോഡുചെയ്യണം നിങ്ങൾക്ക് മ്യൂട്ടേറ്റ് കമാൻഡ് ഉപയോഗിക്കാം കൂടാതെ നിങ്ങൾ ഡാറ്റാ ഫ്രെയിം കടന്നുപോകേണ്ടതുണ്ട് നിങ്ങൾ പറയണം നിലവിലുള്ള ബിപി നിരയുടെ ലോഗരിതം മൂല്യങ്ങൾ വഹിക്കുന്ന പുതിയ നിര നിങ്ങൾ സൃഷ്ടിക്കണം ഇപ്പോൾ നിങ്ങൾ ഈ pd2 അച്ചടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും ബിപിയുടെ ലോഗരിതം സൃഷ്ടിക്കുന്ന മറ്റൊരു വേരിയബിൾ ഉണ്ട് നിങ്ങൾക്ക് അതിന്റെ അനുബന്ധ മൂല്യങ്ങളുണ്ട് ഡാറ്റാ വിശകലനത്തിന്റെ കാര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട 2 ഡാറ്റ ഫ്രെയിമുകളിൽ എങ്ങനെ ചേരാമെന്ന് നോക്കാം കാരണം ഈ 2 ഡാറ്റയുമായി പൊരുത്തപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഒരു ഉറവിടത്തിൽ നിന്നും മറ്റ് ഉറവിടങ്ങളിൽ നിന്നുള്ള ഡാറ്റയുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് ഡാറ്റയുടെ ഒരു ഭാഗം ലഭിക്കും കുറച്ച് സാധാരണ I ds ഉള്ളവ നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യും ചോദ്യം അതിനാൽ ഡാറ്റാ ഫ്രെയിമുകളുടെ ഈ സംയോജനം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും dplyr പാക്കേജ് dplyr ന്റെ പൊതു വാക്യഘടന ഇപ്രകാരമാണ് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ആവശ്യമാണ് അത് ചേരാം വലത് ചേരുക ആന്തരിക ചേരൽ തുടങ്ങിയവ നിങ്ങൾ ആദ്യ ഡാറ്റ ഫ്രെയിമും രണ്ടാമത്തെ ഡാറ്റ ഫ്രെയിമും കൈമാറേണ്ടതുണ്ട് കാരണം ഈ 2 ഡാറ്റ ഫ്രെയിമുകളിൽ ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഏതു ഐഡി വേരിയബിൾ ഉപയോഗിക്കണം എന്ന് നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് അതിലൂടെ നിങ്ങൾ ഈ 2 ഡാറ്റ ഫ്രെയിമുകളിൽ ചേരണം അതിനാൽ ഇവിടെ Id വേരിയബിൾ രണ്ട് ഡാറ്റ ഫ്രെയിമുകൾക്കും സാധാരണമാണ് അതിനർത്ഥം രണ്ട് ഡാറ്റ ഫ്രെയിമുകളിലും നിങ്ങൾക്ക് ആ വേരിയബിൾ ഉണ്ടായിരിക്കണം നിങ്ങൾ സംയോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും ഈ വേരിയബിൾ 2 ഡാറ്റാ ഫ്രെയിമുകൾ സംയോജിപ്പിക്കുന്നതിനുള്ള ഐഡന്റിഫയറുകൾ നൽകുന്നു ഒപ്പം കോമ്പിനേഷന്റെ സ്വഭാവവും ഉപയോഗിക്കുന്ന പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കുന്നു ഞങ്ങൾ ചില ഉദാഹരണങ്ങൾ കാണും സ്ലൈഡ് സമയം റഫർ ചെയ്യുക 1123 ഉദാഹരണം ഇത് നമുക്ക് നോക്കാം എനിക്ക് ഒരു ഡാറ്റാ ഫ്രെയിം ഉണ്ട് അത് എനിക്ക് പേരും പ്രായവും വഹിക്കുന്നു ഞാൻ ഇവിടെ ds പോലെ ഞങ്ങൾക്ക് ഒന്ന് 2 ഉണ്ട് ജാക്ക് ജിൽ എന്നിവരുടെ പേര് 10 12 വയസ്സ് പ്രായമുള്ളവർ റിവേഴ്സ് ഓർഡറിൽ അദ്ദേഹത്തിന്റെ ഐഡികളുള്ള മറ്റൊരു ഡാറ്റാ ഫ്രെയിം ഞങ്ങളുടെ പക്കലുണ്ട് ഐഡി 2 ഐഡി 1 ഉം ലിംഗഭേദവും പെൺകുട്ടിയും ആൺകുട്ടിയുമാണ് ഇത് നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന output ട്ട് പുട്ടാണ് ഇടത് ചേരിയോ വലത് ചേരിയോ ഉപയോഗിച്ച് ഈ 2 ഡാറ്റ ഫ്രെയിമുകൾ ലയിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് പറയാം അതിനാൽ ഉദാഹരണത്തിന് വ്യക്തിഗത ഡാറ്റ ഫ്രെയിമുകളിൽ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഡാറ്റ ഫ്രെയിം നിങ്ങൾക്ക് ലഭിക്കും രണ്ട് ഡാറ്റാ ഫ്രെയിമുകൾക്കും പൊതുവായുള്ള പൊതുവായ വേരിയബിളുകൾ അല്ലെങ്കിൽ ഐഡന്റിഫയറുകൾ വേരിയബിളുകളാണ് ഐ ഡി എസ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞങ്ങൾ ഈ ഐഡി വേരിയബിൾ ഉപയോഗിക്കുന്നു ഈ 2 ഡാറ്റ ഫ്രെയിമുകൾ 1 2 സംയോജിപ്പിക്കാൻ അതിനാൽ ഞങ്ങൾക്ക് 1 ജാക്ക് ഉണ്ട് 1 ന് ഞങ്ങൾക്ക് ആൺകുട്ടിയുണ്ട് ഞങ്ങൾക്ക് ജാക്കിന്റെ പ്രായം 10 ഉം അത് പരിപാലിക്കപ്പെടുന്നു നിങ്ങൾക്ക് ജിലും ഐഡിയും ഉണ്ട് ഗൂഗിളിന്റെ വേരിയബിൾ 2 ആണ് അതിനാൽ ഞങ്ങൾക്ക് 2 ജിൽ പ്രായവും ലിംഗഭേദവും ഉണ്ടാകും ഇത് ഒരു ഉദാഹരണമാണ് ഡാറ്റാ ഫ്രെയിമുകൾ ലയിപ്പിക്കുന്നതും സംയോജിപ്പിക്കുന്നതും എങ്ങനെ സംഭവിക്കുന്നു ഇപ്പോൾ രണ്ട് ഡാറ്റാ ഫ്രെയിമുകൾ സംയോജിപ്പിക്കുന്നതിന് dplyr പാക്കേജിൽ ലഭ്യമായ വ്യത്യസ്ത ഫംഗ്ഷനുകളിലേക്ക് നമുക്ക് ആഴത്തിൽ നോക്കാം ഡാറ്റാ ഫ്രെയിമുകൾ സംയോജിപ്പിക്കുന്നതിന് dplyr പാക്കേജിൽ നിരവധി ഫംഗ്ഷനുകൾ ലഭ്യമാണ് അവയിൽ ചിലത് അവശേഷിക്കുന്നു വലത് ചേരുന്നു ആന്തരിക ചേർച്ചയുണ്ട് ഒപ്പം പൂർണ്ണ ചേർച്ചയുമുണ്ട് സെമി ജോയിനും ആന്റി ജോയിനും ഈ പ്രഭാഷണത്തിൽ ഞങ്ങൾ കാണാൻ പോകുന്നത് ആദ്യത്തെ 3 ഇടത് ചേരൽ വലത് ചേരുക ആന്തരിക ചേരൽ എന്നിവയാണ് ഡാറ്റാ ഫ്രെയിമുകൾ സംയോജിപ്പിക്കുന്നതിൽ പൂർണ്ണ ചേരൽ സെമി ജോയിഞ്ച് ആന്റി ജോയിൻ എന്നിവ എന്താണെന്ന് മനസിലാക്കാൻ ഞങ്ങൾ പ്രേക്ഷകരെ ഒരു വ്യായാമമായി ഉപേക്ഷിക്കും ആദ്യം 2 ഡാറ്റ ഫ്രെയിമുകൾ സൃഷ്ടിച്ച് ഡാറ്റാ ഫ്രെയിമുകളിൽ ചേരുന്നത് നമുക്ക് വ്യക്തമാക്കാം ആദ്യം ഈ ഡാറ്റ ഫ്രെയിം p d സൃഷ്ടിക്കാം ഇവിടെ കാണിച്ചിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഇത് സൃഷ്ടിക്കാൻ കഴിയും നിങ്ങൾ അത് അച്ചടിക്കുമ്പോൾ ഞങ്ങൾക്ക് 2 പേരുകളായ സെന്തിലും സാമും ഉണ്ടെന്ന് output ട്ട് പുട്ട് പങ്കിടലായി കാണാൻ കഴിയും ഞങ്ങൾക്ക് ജനുവരി ഫെബ്രുവരി 2 മാസമുണ്ട് ആ വേരിയബിളുകളുടെ ബ്ലഡ് ഷുഗറും ബ്ലഡ് പ്രഷറും ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ മറ്റൊരു ഡാറ്റാ ഫ്രെയിം എടുക്കുന്നു അതിൽ 3 പേരുകൾ സെന്തിൽ റമെഷ് സാം എന്നിവSenthil ramesh Sam അടങ്ങിയിരിക്കുന്നു മറ്റ് നിര അവർ പ്രവർത്തിക്കുന്ന വകുപ്പിനെ വഹിക്കുന്നു അതിനാൽ സെന്തിലും സാമും പി എസ് ഇയിൽ പ്രവർത്തിക്കുന്നു കൂടാതെ റാമെഷ് ഡാറ്റാ അനലിറ്റിക്സിൽ പ്രവർത്തിക്കുന്നു ഈ ഡാറ്റ ഫ്രെയിം സൃഷ്ടിക്കുന്നതിനും നിങ്ങൾക്ക് ഈ കോഡ് ഉപയോഗിക്കാനും ഈ ഡാറ്റ ഫ്രെയിം അച്ചടിക്കുമ്പോഴും കൺസോളിലെ ഫലം ചുവടെ കാണിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഞങ്ങൾ 2 ഡാറ്റ ഫ്രെയിമുകൾ pd ഉം pd പുതിയതും സൃഷ്ടിച്ചു ഇടതുപക്ഷം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം ഈ 2 ഡാറ്റ ഫ്രെയിമുകൾ പിഡിയും പി ഡി പുതിയതും സംയോജിപ്പിക്കാൻ നിങ്ങൾ താൽ പ്പര്യപ്പെടുമ്പോൾ ഐഡി വേരിയബിളുകളെ അടിസ്ഥാനമാക്കി 1 ൽ നിന്നുള്ള ഡാറ്റയിലേക്ക് ഡാറ്റാ ഫ്രെയിം 2 ന്റെ വരികളുമായി പൊരുത്തപ്പെടുന്നു വാക്യഘടനയിൽ നിന്ന് ഫംഗ്ഷൻ ഡാറ്റ ഫ്രെയിം 1 ഡാറ്റാ ഫ്രെയിം 2 എന്നിവ ഞങ്ങളുടെ പക്കലുള്ള വാക്യഘടനയാണെന്ന് നമുക്ക് കാണാൻ കഴിയും കൂടാതെ ഐഡി വേരിയബിളിനെ അവസാന ആർഗ്യുമെന്റായി വ്യക്തമാക്കേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഡാറ്റാ ഫ്രെയിം 1 ൽ ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് pd ഉം ഡാറ്റാ ഫ്രെയിം 2 ഉം pd new ഉം ആണ് ഒരു റഫറൻസായി എന്താണ് എടുക്കുന്നത് ഡാറ്റാ ഫ്രെയിം 1 അത് പി ഡി ആണ് ഇപ്പോൾ ഇത് ഡാറ്റാ ഫ്രെയിം 2 ന്റെ വരികളുമായി പൊരുത്തപ്പെടുന്നു അത് സെന്തിൽ രാമേസും സാമും ആണ് കൂടാതെ ഡാറ്റാ ഫ്രെയിം 2 ൽ കാണുന്നു ഡാറ്റാ ഫ്രെയിം 1 ലെ നെയിം വേരിയബിളുകളുമായി പൊരുത്തപ്പെടുന്നതെന്താണ് പ്രധാനമായും ഇത് സെന്തിലും സാമിലും മാത്രമേ സൂക്ഷിക്കുകയുള്ളൂ റാമെഷിനെ സൂക്ഷിക്കരുത് കാരണം ഇത് ഡാറ്റാ ഫ്രെയിം 2 മുതൽ ഡാറ്റ ഫ്രെയിം 1 വരെ പൊരുത്തപ്പെടുന്ന വരികളിലേക്ക് എടുക്കും അതിനാൽ നിങ്ങൾ ഉദാഹരണം ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ pd new ലെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന 2 ഐഡികൾ മാത്രമേയുള്ളൂ അത് pd യുമായി ലയിപ്പിക്കും വേരിയബിൾ ഡിപ്പാർട്ട്മെന്റ് അന്തിമ ഡാറ്റാ ഫ്രെയിമിലേക്ക് ചേർക്കും സെന്തിലിനും സാമിനും മാത്രം നമുക്ക് വിശദമായി നോക്കാം നിങ്ങൾക്ക് ലൈബ്രറി dplyr ലോഡുചെയ്യേണ്ട 2 ഡാറ്റ ഫ്രെയിമുകൾ ഉണ്ട് നിങ്ങൾ അത് ചെയ്യുന്നു ഒരു ഇടത് ചേരുക ഞാൻ പുതിയ ഡാറ്റാ ഫ്രെയിമിന് പേരിടുന്നു ഈ ഇടത് ചേരൽ പ്രവർത്തനവുമായി ഇത് പുറത്തുവരുന്നു കാരണം പിഡി അടിവരയിട്ട ഇടത് അടിവര 1 ൽ ചേരുന്നു ചേരുന്ന ഈ കമാൻഡ് ഞാൻ ഉപയോഗിക്കണം ഇതാണ് ഡാറ്റാ ഫ്രെയിം 1 ഞാൻ കടന്നുപോകുന്നത് ഇതാണ് ഞാൻ കടന്നുപോകുന്ന 2 ൽ നിന്നുള്ള ഡാറ്റ തുടർന്ന് വേരിയബിൾ പേരിനൊപ്പം ഈ 2 ഡാറ്റ ഫ്രെയിമുകളിൽ ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഈ 2 ഡാറ്റാ ഫ്രെയിമുകളിൽ പേരിനൊപ്പം ചേരണമെന്ന് നിങ്ങൾ വ്യക്തമാക്കുമ്പോൾ ഇടതുപക്ഷം അതിൽ ചേരുന്നു pd ഒരു റഫറൻസായി എടുക്കും P d p d എന്നിവയിൽ പൊതുവായുള്ള പേരുകൾ തിരയുക തുടർന്ന് pd new ൽ നിന്ന് ഡാറ്റ എടുക്കുക ഇത് p d മായി ലയിപ്പിക്കുകയും തുടർന്ന് മറ്റൊരു ഡാറ്റ ഫ്രെയിം സൃഷ്ടിക്കുകയും ചെയ്യുക ഇത് ഈ പേര് pd left join1 നൽകുന്നു അതിനാൽ നിങ്ങൾക്ക് ഡാറ്റാ ഫ്രെയിം 1 പി ഡി ഉണ്ട് അതിൽ സെന്തിലും സാമും അടങ്ങിയിരിക്കുന്നു ഇത് ഡാറ്റാ ഫ്രെയിം 2 ൽ സെന്തിലും സാമും തിരയുന്നു തുടർന്ന് വിവരങ്ങൾ ലയിപ്പിക്കുന്നു ഇത് ഈ പേരുകൾക്ക് അധികമായി ലഭ്യമാണ് നിലവിലുള്ള ഡാറ്റാ ഫ്രെയിമിലേക്ക് ഇത് ചേർക്കുന്നു മറ്റൊരു നിര വകുപ്പും സെന്തിൽ വകുപ്പും പി എസ് സി ആണ് സാം വകുപ്പിലെ പി എസ് സി കൂടിയാണ് ഇത് പിഡി വീണ്ടും സൂക്ഷിക്കുകയും തുടർന്ന് ഡാറ്റാ ഫ്രെയിം 2 ൽ നിന്ന് വരുന്ന അനുബന്ധ വിവരങ്ങൾ ചേർക്കുകയും ചെയ്യും ഇപ്പോൾ വലതുവശത്ത് സമാനമായി ചേരുന്നത് നോക്കാം അതിനാൽ ശരിയായ ചേരൽ എന്താണ് ചെയ്യുന്നത് ഐഡി വേരിയബിളിനെ അടിസ്ഥാനമാക്കി ഡാറ്റാ ഫ്രെയിം 1 ന്റെ പൊരുത്തപ്പെടുന്ന വരികളിൽ ഡാറ്റാ ഫ്രെയിം 2 ലേക്ക് ചേരുന്നു നമുക്ക് പറയാം നിങ്ങൾക്ക് ഈ ഡാറ്റ 1 ൽ നിന്ന് പി ഡി ഡാറ്റാ ഫ്രെയിം 2 എന്നിവയുണ്ട് അത് പി ഡി പുതിയതാണ് നിങ്ങൾക്ക് ശരിയായ ചേരാം റൈറ്റ് ജോയിഞ്ച് കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾ ഡാറ്റാ ഫ്രെയിം 1 ഉം ഡാറ്റാ ഫ്രെയിം 2 ഉം പാസാക്കേണ്ടതുണ്ട് ഇവിടെ ഒരു ഡാറ്റാ ഫ്രെയിം 1 പി ഡി പുതിയ എന്നിവ ഒരു ഡാറ്റ ഫ്രെയിം 2 ആയി ഞങ്ങൾക്ക് പിഡി ഉണ്ട് ഇപ്പോൾ എന്താണ് വേണ്ടത് ഇത് റഫറൻസ് ഡാറ്റ ഫ്രെയിമായി പി ഡി പുതിയ എടുത്ത് വരികളുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കും പി ഡി പുതിയതിൽ അടങ്ങിയിരിക്കുന്നതും പി ഡിയിൽ ഒരു മത്സരം തിരയുന്നതുമാണ് ഞങ്ങൾക്ക് സെന്തിലും സാമും പി ഡിയിൽ പൊരുത്തപ്പെടുന്നുണ്ട് ഇത് ഇപ്പോൾ ഈ റമെഷിനെ നിലനിർത്തും കാരണം റഫറൻസുകൾ ഈ ഡാറ്റ ഫ്രെയിമാണ് അതിനാൽ നിങ്ങൾക്ക് സെന്ധിൽ രാമേശും സാമും ഉണ്ടാകും എന്നാൽ രാമേഷിന് നിങ്ങൾക്ക് മാസമോ ബ്ലഡ് ഷുഗറും ബ്ലഡ് പ്രഷറും ഇല്ല പൊരുത്തപ്പെടുന്ന പ്രവർത്തനം അതായിരിക്കുമ്പോൾ അവ n s മാറ്റിസ്ഥാപിക്കുന്നു നിങ്ങൾക്ക് ഓർഡർ മാറ്റാൻ കഴിയും അതിൽ നിങ്ങൾ ഡാറ്റ ഫ്രെയിമുകൾ കടന്നുപോകുന്നു നിങ്ങൾ ഓർഡർ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും നിങ്ങൾ ഡാറ്റാ ഫ്രെയിം കടന്നുപോകുന്നു ഒരാൾക്ക് പുതിയതും ഡാറ്റ ഫ്രെയിം 2 ഉം pd ആയി output ട്ട് പുട്ട് ഇടത് ജോയിന് സമാനമാണെന്ന് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയും കാരണം ഇപ്പോൾ ഇവിടെ റഫറൻസ് വേരിയബിൾ പിഡി ആണ് നിങ്ങൾ ഈ റൈറ്റ് ചേഞ്ച് പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു റഫറൻസ് ഡാറ്റ ഫ്രെയിമായി പിഡി ഉപയോഗിക്കുമ്പോൾ പ്രവർത്തനം ഇടത് ജോയിന് സമാനമാണ് കാരണം നിങ്ങളുടെ പിഡി വലതുവശത്തുള്ള റഫറൻസാണ് ഇവിടെ ചേരുന്നത് അതിനാൽ ലെഫ്റ് ജോയിൻ റൈറ്റ് ജോയിൻ സംഗ്രഹിക്കുന്നതിന് തിരിച്ചും ഉപയോഗിക്കാം എന്നാൽ നിങ്ങൾ ഈ ഡാറ്റ ഫ്രെയിമുകൾ കൈമാറുന്ന രീതിയെ ആശ്രയിച്ച് പൊരുത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ സമാനമോ വ്യത്യസ്തമോ ആയി കാണപ്പെടും അതിനാൽ നിങ്ങൾ ആർഗ്യുമെന്റുകൾ കൈമാറുമ്പോൾ ഈ ലെഫ്റ് ജോയിൻ റൈറ്റ് ജോയിൻ കമാൻഡുകൾക്കൊപ്പം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇന്നർ ജോയിൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്നർ ജോയിൻ ലയിക്കുകയും രണ്ട് ഡാറ്റാ ഫ്രെയിമുകളിലും ഉള്ള ഐഡികളിലെ ആ വരികൾ നിലനിർത്തുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഡാറ്റാ ഫ്രെയിം 1 ഉണ്ട് അത് പുതിയതാണ് നിങ്ങൾക്ക് ഡാറ്റാ ഫ്രെയിം 2 ഉണ്ട് അത് പിഡി ആണ് ഇപ്പോൾ ഈ 2 ഡാറ്റ ഫ്രെയിമുകൾ ഈ ഇന്നർ ജോയിൻ ഫംഗ്ഷനിലേക്കുള്ള ഒരു ആർഗ്യുമെന്റായി ഞാൻ കടന്നുപോകുമ്പോൾ അവ പൊരുത്തപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ട് ഡാറ്റാ ഫ്രെയിമുകളിലും I ds ഉള്ള വരികൾക്കായി ഇത് പേരിനൊപ്പം നോക്കും ഈ 2 ഡാറ്റാ ഫ്രെയിമുകളിൽ ഞങ്ങൾക്ക് സെന്തിലും സാമും ഉണ്ട് ഇത് സെന്തിലിനും സാമിനും അനുയോജ്യമായ ഡാറ്റ മാത്രമേ അച്ചടിക്കുകയുള്ളൂ കാരണം ഈ ഡാറ്റാ ഫ്രെയിം 2 ൽ റമെഷ് ലഭ്യമല്ല അതിനാൽ ലെഫ്റ് ജോയിൻ റൈറ്റ് ജോയിൻ ഇന്നർ ജോയിൻ left join right join inner join ഞങ്ങൾ കണ്ടു സെമി ജോയിനും വർക്ക് വിരുദ്ധരും എത്രത്തോളം പങ്കുചേരുന്നുവെന്ന് മനസിലാക്കാൻ ഞങ്ങൾ കാഴ്ചക്കാരന് ഒരു വ്യായാമമായി പുറപ്പെട്ടു ഈ പ്രഭാഷണത്തിൽ സംഗ്രഹിക്കുന്നതിന് ഡാറ്റ ഫ്രെയിമുകൾ എങ്ങനെ പുനർനിർമ്മിക്കാമെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ടോ dplyr പാക്കേജ് ഉപയോഗിച്ച് രണ്ട് ഡാറ്റ ഫ്രെയിമുകൾ എങ്ങനെ സംയോജിപ്പിക്കാം അടുത്ത പ്രഭാഷണത്തിൽ R ൽ ഗണിത ലോജിക്കൽ മാട്രിക്സ് പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് ഞങ്ങൾ കാണാൻ പോകുന്നു